നമുക്ക് ഇപ്പോൾ ഹീപ്സ് നോക്കാം മുൻഗണനാ ക്യൂ നടപ്പിലാക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് ഓർക്കുക ഒരു മുൻഗണനാ ക്യൂവിൽ ഞങ്ങൾക്ക് സിസ്റ്റത്തിൽ പ്രവേശിക്കുന്ന തുടർച്ചയായ ജോലികളുണ്ട് ഓരോ ജോലിക്കും മുൻഗണനയുണ്ട് നിർവ്വഹിക്കുന്നതിനായി ഒരു ജോലി ഷെഡ്യൂൾ ചെയ്യാൻ ഞങ്ങൾ തയ്യാറാകുമ്പോഴെല്ലാം ഏറ്റവും പുതിയ ജോലിയോ ഞങ്ങൾക്ക് ലഭിച്ച ആദ്യകാല ജോലിയോ അല്ല മറിച്ച് നിലവിൽ കാത്തിരിക്കുന്ന ജോലികളിൽ ഏറ്റവും മുൻഗണനയുള്ള ജോലിയാണ് ഞങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് അതിനാൽ ഡിലീറ്റ് മാക്സ് എന്ന ഒരു പ്രവർത്തനം ഞങ്ങൾക്ക് ആവശ്യമാണ് അത് അവശേഷിക്കുന്നവയിൽ ഏറ്റവും മുൻഗണനയുള്ള ജോലി സെർച്ച് ചെയുകയും അടുത്തതായി ഷെഡ്യൂൾ ചെയ്യുകയും ചെയ്യും ഈ ജോലികൾ വരുമ്പോൾ ചലനാത്മകമായി ചേർക്കുന്ന ഒരു ഇന്സേര്ട് ഓപ്പറേഷൻ ഞങ്ങൾക്കുണ്ട് ഒരേസമയം ഒപ്റ്റിമൈസ് ചെയ്യാൻ ഒരു രേഖീയ ഘടന ഞങ്ങളെ അനുവദിക്കില്ലെന്ന് ഞങ്ങൾ കഴിഞ്ഞ തവണ കണ്ടു മാക്സ് ഇല്ലാതാക്കുന്നതിനുള്ള ഒരു ഓർഡർ N പ്രവർത്തനം അല്ലെങ്കിൽ ഇൻസേറ്റിനായി ഒരു ഓർഡർ N പ്രവർത്തനം ഞങ്ങൾ അവസാനിപ്പിക്കുന്നു അപ്പോൾ നിസ്സാരമായ രണ്ട് ഡൈമൻഷണൽ അറേ ഞങ്ങൾ കണ്ടു അത് നമുക്ക് N റൂട്ട് N പരിഹാരം നൽകുന്നു ഇവയിൽ ഓരോന്നിനും റൂട്ട് N ഓപ്പറേഷൻ ആണ് അതിനാൽ ഞങ്ങളുടെ N പ്രവർത്തനങ്ങൾ N മുതൽ N വരെയാണ് ഒരു ഹീപ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു പ്രത്യേക തരം ട്രീ ഉപയോഗിക്കുന്നു ഹീപ് ഒരു ബാലൻസ് ട്രീ ആകും അതിന്റെ ഉയരം വലുപ്പത്തിൽ ലോഗരിഥമിക് ആണ് ട്രീയിൽ ഫ്ലാഗ് N നോഡുകൾ ഉണ്ടെങ്കിൽ റൂട്ട് മുതൽ ഏതെങ്കിലും ലീഫ് വരെയുള്ള അരികുകളുടെ എണ്ണം ലോഗ് N ആകും ലോഗ് N ലോഗിൻ ചെയ്യാനായി രണ്ട് ഇൻസേർട്ട് ഡിലീറ്റ് മാക്സ് എന്നിവ പ്രീപോസിഷണൽ ആകും അതിനാൽ N ജോലികൾ പ്രോസസ്സ് ചെയ്യുന്നതിന് N ലോഗ് N എടുക്കും ഈ ഹീപ് തത്വത്തിൽ വഴക്കമുള്ളതാണെന്നും നമുക്ക് ആവശ്യമുള്ളത്ര വലുതായി വളരുമെന്നും ഞങ്ങൾ പറഞ്ഞു അതിനാൽ നമുക്ക് സൂക്ഷിക്കേണ്ട ഹീപിന്റെ വലുപ്പം ഞങ്ങൾ മുൻകൂട്ടി നിശ്ചയിക്കേണ്ടതില്ല ഒരു ഹീപ് ടെസ്റ്റ് എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം അതിനാൽ ഒരു ബൈനറി ട്രീ നമുക്ക് ഒരു റൂട്ട് ഉള്ള ഒരു ട്രീ ആണ് ഓരോ നോഡിലും 0 1 അല്ലെങ്കിൽ 2 ചിൽഡ്രൻ ഉണ്ട് അതിനാൽ ബൈനറി ട്രീക്ക് പൊതുവെ ഏകപക്ഷീയമായ ആകൃതികൾ ഉണ്ടാകാം അതിനാൽ നമുക്ക് ഇതുപോലുള്ള ബൈനറി ട്രീ ഉണ്ടായിരിക്കാം അവിടെ റൂട്ടിന് 1 ചൈൽഡ് ഉണ്ട് ഇതിന് 2 ചിൽഡ്രൻ ഉണ്ട് അല്ലെങ്കിൽ ഒരു ദിശയിൽ കൂടുതൽ വളഞ്ഞതായി കാണാനാകും അതിനാൽ ബൈനറി ട്രീക്ക് വളരെ വിചിത്രമായ ആകൃതിയുണ്ടാകാം പക്ഷേ ഒരു ഹീപ് എന്നത് ഒരു പ്രത്യേക രൂപമുള്ള ഒരു ബൈനറി ട്രീ ആണ് അവിടെ ഞങ്ങൾ ട്രീ നോഡുകൾ പൂരിപ്പിക്കുന്നു അല്ലെങ്കിൽ ഒരു പ്രത്യേക ക്രമത്തിൽ ട്രീ നോഡുകൾ ചേർക്കുന്നു ആദ്യം നമ്മൾ റൂട്ടിൽ നിന്ന് തുടങ്ങണം പിന്നെ നമ്മൾ റൂട്ടിന്റെ ലെഫ്റ് ചൈൽഡ് ചേർക്കണം തുടർന്ന് റൈറ്റ് ചൈൽഡ് ഈ രീതിയിൽ ലെവൽ ഇടത്തോട്ടും വലത്തോട്ടും പോകണം അതിനാൽ ഞങ്ങൾ ഈ നോഡ് ചേർക്കുന്നു തുടർന്ന് ഞങ്ങൾ ഈ നോഡ് ചേർക്കുന്നു തുടർന്ന് ഞങ്ങൾ ഈ നോഡും ചേർക്കുന്നു അതിനാൽ ട്രീയിൽ എത്ര നോഡുകൾ ഉണ്ടെന്ന് എനിക്കറിയുമ്പോൾ ആകൃതി എന്താണെന്ന് എനിക്ക് കൃത്യമായി അറിയാം അതിനാൽ ആകൃതി ഉറപ്പിച്ചിരിക്കുന്നു അതിനാൽ ഹീപിന്റെ ആദ്യ സവിശേഷതയാണ് എനിക്ക് n നോഡുകളുള്ള ഒരു ഹീപ് ഉണ്ടെങ്കിൽ ട്രീയുടെ ആകൃതി ഈ നിയമത്തിലൂടെ നിശ്ചിതമായി നിശ്ചയിച്ചിരിക്കുന്നത് n നോഡുകൾ മുകളിൽ നിന്ന് താഴേക്ക് ഇടത്തുനിന്ന് വലത്തോട്ട് ചേർക്കണം അപ്പോൾ നമുക്ക് ഒരു മൂല്യമുള്ള പ്രോപ്പർട്ടി ലഭിക്കും വാല്യൂ പ്രോപ്പർട്ടി പറയുന്നത് ഇങ്ങനെയാണ് ട്രീയിൽ സംഭവിക്കുന്നത് നമുക്ക് നോഡുകളുണ്ട് ഓരോ നോഡുകളും മൂല്യമാണ് അതിനാൽ v 2 v 3 എന്നീ ചിൽഡ്രൻ ഉള്ള v 1 മൂല്യമുള്ള ഒരു നോഡ് ആണ് ഞാൻ കാണുമ്പോഴെല്ലാം നമുക്ക് വേണ്ടത് ഇതാണ് v 2 നെക്കാൾ വലുതോ തുല്യമോ v നെക്കാൾ വലുതോ തുല്യമോ ആണ് അതിനാൽ ഈ മൂന്ന് നോഡുകളിൽ ഏറ്റവും വലുത് v 1 ആയിരിക്കണം അതിനാൽ ഇതിനെയാണ് മാക്സ് ഹീപ് പ്രോപ്പർട്ടി എന്ന് വിളിക്കുന്നത് അതിനാൽ ഇത് പ്രാദേശിക പ്രോപ്പർട്ടി ആണ് ഓരോ നോഡിലും നോക്കുക 2 ചിൽഡ്രൻ നോക്കുക നോഡ് 2 ചിൽഡ്രനേക്കാൾ വലുതായിരിക്കണം 4 നോഡുകളുള്ള ഹീപ്സിന്റെ ഒരു ഉദാഹരണം ഇതാ ആദ്യം ഇത് 4 നോഡുകൾ ആയതിനാൽ ഓരോ 4 നോഡ് ഹീപ്സിനും ആകൃതി ഉണ്ടായിരിക്കും കാരണം ആദ്യത്തെ നോഡ് റൂട്ട് ആയിരിക്കും രണ്ടാമത്തേത് റൂട്ട് ലെഫ്റ് ചൈൽഡ് മൂന്നാമത്തെ നോഡ് റൈറ്റ് ചൈൽഡ് നാലാമത്തെ നോഡ് ഒരു പുതിയ ലൈൻ ആരംഭിക്കും അപ്പോൾ കൂടുതൽ ഹീപ്പ് പ്രോപ്പർട്ടി നമുക്ക് പരിശോധിക്കാം അതിനാൽ 24 എന്നത് 11 നെക്കാൾ വലുതാണ് 24 എന്നത് 7 നെക്കാൾ വലുതാണെന്ന് ഞങ്ങൾ കാണുന്നു അതിനാൽ ഇത് ഒരു ഹീപ്പ് പ്രോപ്പർട്ടിക്ക് സാധുവായ ഒരു നോഡാണ് 11 എന്നത് 10 നേക്കാൾ വലുതാണ് റൈറ്റ് ചൈൽഡ് ഇല്ല അതിനാൽ ഇത് സാധുവായ ഹീപ്സാണ് 7 ഉള്ള ഒരു ചൈൽഡും ഇല്ലാ അതിനാൽ നിസ്സാരമായി ഇത് സാധുവായ ഒരു ഹീപ്പ് നോഡാണ് അതേ കാരണത്താൽ 10 സാധുവായ ഹീപ്പ് നോഡാണ് അതിനാൽ ചിൽഡ്രൻ ഇലാത്ത എല്ലാ ലീഫ് നോഡുകളും എല്ലായ്പ്പോഴും ഹീപ് പ്രോപ്പർട്ടി തൃപ്തിപ്പെടുത്തുന്നു അതിനാൽ നിങ്ങൾക്ക് ഒരു ലീഫ് നോഡ് ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും പരിശോധിക്കേണ്ടതില്ല ഇവിടെ മറ്റൊരു ഹീപ് ഉണ്ട് ഇതിൽ 7 നോഡുകളുണ്ട് അതിനാൽ വീണ്ടും ആകൃതി ഉറപ്പിച്ചിരിക്കുന്നു ഇത് 11 7 എന്നിവയേക്കാൾ വലുതാണെന്ന് നിങ്ങൾക്ക് വീണ്ടും പരിശോധിക്കാം 11 എന്നത് 10 5 എന്നിവയേക്കാൾ വലുതാണ് 7 എന്നത് 6 5 എന്നിവയേക്കാൾ വലുതാണ് ബാക്കിയുള്ളവയെല്ലാം ലീഫ് നോഡാണ് അതിനാൽ ഒരു പ്രശ്നവുമില്ല അതിനാൽ ഇവ ഹീപ്സിന്റെ രണ്ട് ഉദാഹരണങ്ങളാണ് അതിനാൽ ഒരു ഹീപ്സലാത്തതിന്റെ ഒരു ഉദാഹരണം എന്താണ് ഇവിടെ നമുക്ക് ഒരു ഹീപ്സ് അല്ലാത്തത് ഉണ്ട് കാരണം ഘടന തെറ്റാണ് അതിനാൽ നിങ്ങൾക്ക് ലീഫ് ഹോൾസ് ഉണ്ടാകില്ലെന്ന് ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ മുകളിൽ നിന്ന് താഴേക്ക് ഇടത്തോട്ട് വലത്തോട്ട് പോകണം അതിനാൽ വലതുവശത്ത് നോഡ് ചേർക്കുന്നതിന് മുമ്പ് ഇവിടെ ചില നോഡുകൾ ഉണ്ടായിരിക്കണം അപ്പോൾ ഈ നോഡ് എവിടെയാണ് ഈ നോഡ് കാണുന്നില്ല അതിനാൽ ഈ ഘടന ശരിയല്ല അതേ കാരണത്താൽ ഈ ഘടനയും ശരിയല്ല കാരണം നമുക്ക് ഇവിടെ കാണാതായ എന്തെങ്കിലും ഉണ്ട് ഈ തലത്തിൽ ഒരു നോഡ് ഉണ്ട് ഞങ്ങൾ ഒരു പുതിയ ലൈൻ ആരംഭിച്ചു അതിനാൽ ഇവ രണ്ടും ഘടനാപരമായ കാരണങ്ങളാൽ ഒരു ലീഫ് അല്ലാ ഇവിടെ മറുവശത്ത് സാധുവായ ഒരു ഘടനയാണ് ഞങ്ങൾ കണ്ടത് വാസ്തവത്തിൽ ഘടനയുള്ളതിന് മുമ്പ് ഞങ്ങൾ ഹീപ് കണ്ടു പ്രശ്നം ഈ നോഡിലാണ് അതിനാൽ 7 8 5 എന്നിവയേക്കാൾ വലുതായിരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു പക്ഷേ ഇത് തീർച്ചയായും അങ്ങനെയല്ല 7 എന്നത് 8 നെക്കാൾ വലുതല്ല 7 എന്നത് 8 നെക്കാൾ ചെറുതാണ് ഈ നോഡ് 8 യഥാർത്ഥത്തിൽ ഹീപ്പ് പ്രോപ്പർട്ടിയെ ലംഘിക്കുന്നു അതിനാൽ ട്രീയുടെ ഘടന തെറ്റായതിനാലോ അല്ലെങ്കിൽ ചില നോഡിൽ ഹീപ്പ് പ്രോപ്പർട്ടി ലംഘിച്ചതിനാലോ എന്തോ ഒരു ഹീപ്സ് ആകുന്നതിൽ പരാജയപ്പെടാം ഈ സാഹചര്യത്തിൽ ഹീപ്പ് പ്രോപ്പർട്ടി ലംഘിക്കുന്ന നോഡ് 7 ആണ് കാരണം അതിലൊന്നാണ് ചിൽഡ്രൻ യഥാർത്ഥത്തിൽ നോഡിനേക്കാൾ വലുതാണ് ഇപ്പോൾ ഞങ്ങൾ ഈ രണ്ട് പ്രവർത്തനങ്ങളും ഹീപ്സിൽ നടപ്പിലാക്കണം ഇന്സേര്ട് ആൻഡ് ഡിലീറ്റ് മാക്സ് അതിനാൽ ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നമുക്ക് നോക്കാം ആദ്യം നമുക്ക് 12 ഉൾപ്പെടുത്താം അതിനാൽ 12 ചേർക്കുക എന്നതിനർത്ഥം ഞാൻ ഹീപ്സിൽ ഒരു മൂല്യം ചേർക്കേണ്ടതുണ്ട് എന്നാണ് അതിനാൽ ഞാൻ ഹീപ്സിൽ ഒരു മൂല്യം ചേർക്കുമ്പോൾ ആദ്യം ഞാൻ ഒരു ട്രീ വികസിപ്പിക്കണം അതിനാൽ ഞാൻ ഈ നോഡ് എവിടെ സ്ഥാപിക്കും അതിനാൽ ഇത് ഇപ്പോൾ പരിഹരിക്കപ്പെട്ടിരിക്കുന്നു കാരണം ഹീപ്സിൽ ഒരു പ്രത്യേക രീതിയിൽ വളരാനും ചുരുങ്ങാനും മാത്രമേ കഴിയൂ എന്ന് ഞങ്ങൾക്കറിയാം അതിനാൽ ഞാൻ പുതിയ നോഡ് ഇടത്തുനിന്ന് വലത്തോട്ട് മുകളിൽ നിന്ന് താഴേക്ക് ചേർക്കണം അതിനാൽ ഈ സാഹചര്യത്തിൽ ഞാൻ ഇടത്തുനിന്ന് വലത്തോട്ട് മുകളിൽ നിന്ന് താഴേക്ക് ഞാൻ ഈ ഘട്ടത്തിലേക്ക് വരുന്നു ഇപ്പോൾ എനിക്ക് കൂടുതൽ ഒന്നും ചേർക്കാനാകില്ല അതിനാൽ അത് അടുത്ത തലത്തിൽ വരണം അതിനാൽ ആദ്യത്തേത് പുതിയ നോഡ് 12 ൽ ഉൾപ്പെടുത്തേണ്ടതാണ് ഈ സാഹചര്യത്തിൽ ഹീപ് പ്രോപ്പർട്ടി യഥാർത്ഥത്തിൽ ഇവിടെ അഭിമുഖീകരിക്കുന്നതായി നിങ്ങൾക്ക് കാണാൻ കഴിയും കാരണം 12 അത് പാരെന്റ്സെക്കാൾ വലുതാണ് അതിനാൽ 10 ഹീപ് പ്രോപ്പർട്ടി ലംഘിക്കുന്നു പക്ഷേ ഇത് മുകളിൽ മാത്രമേ സംഭവിക്കൂ എന്ന് ശ്രദ്ധിക്കുക അതിനാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എന്തെങ്കിലും ചേർക്കുമ്പോൾ അത് ഒരു ലീഫ് ആണ് 12 ഒരു ലീഫ് ആയതിനാൽ 12 ൽ താഴെയുള്ള ഹീപ് നഷ്ടപ്പെടാൻ കഴിയില്ല കാരണം 12 ൽ താഴെയുള്ള ചൈൽഡ് ഒന്നുമില്ല അതിനാൽ ഇത് പ്രാദേശികമായി പരിഹരിക്കാനുള്ള ഒരു ലളിതമായ മാർഗ്ഗമുണ്ട് ഇത് രണ്ടും കൈമാറ്റം ചെയ്യുക എന്നതാണ് അതിനാൽ ഞാൻ ഈ 12 ഉം 10 ഉം കൈമാറുന്നു ഇപ്പോൾ ഞാൻ ഇവിടെ പ്രശ്നം പരിഹരിച്ചു പക്ഷേ ഇപ്പോൾ ഞാൻ ഈ സമയത്ത് മൂല്യം മാറ്റുന്നു അതിനാൽ ഞാൻ ഈ കോൺഫിഗറേഷൻ നോക്കേണ്ടതുണ്ട് ഞാൻ 12 നെ മാറ്റുന്നത് ഹീപ് പ്രോപ്പർട്ടി ലംഘിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ഇവിടെ വീണ്ടും നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടെന്ന് കാണാൻ കഴിയും കാരണം 12 ഇപ്പോഴും പാരെന്റ്സെക്കാൾ വലുതാണ് അപ്പോൾ ഞാൻ അത് കൈമാറുന്നു അതിനാൽ ഇപ്പോൾ ഞാൻ ഇത് കൈമാറുന്നു ഇപ്പോൾ നടക്കുന്ന പ്രക്രിയയിൽ അത് ഇവിടെ നിന്ന് ഇവിടേക്ക് പോയി എന്നതാണ് ഇപ്പോൾ നമ്മൾ സ്വയം ബോധ്യപ്പെടുത്തേണ്ട ആദ്യത്തെ കാര്യം ഞങ്ങൾ ഇപ്പോൾ ഉറപ്പിച്ച പ്രാദേശിക ഹീപ് പ്രോപ്പർട്ടി എന്ന ഹീപ്സിന് കൂടുതൽ പരിഹരിക്കൽ ആവശ്യമാണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ 12 നും 5 നും ഇടയിൽ ഒരു പ്രശ്നവുമില്ലെന്നും മറുവശത്ത് ഇത് സംഭവിക്കില്ലെന്നും ഞങ്ങൾ ഉറപ്പുനൽകണം കാരണം ഞങ്ങൾക്ക് യഥാർത്ഥത്തിൽ 11 5 എന്നിവയും ഇവിടെയും ഉണ്ടായിരുന്നു 11 എന്നത് 5 നേക്കാൾ വലുതാണെന്ന് ഞങ്ങൾക്കറിയാം എന്തോ പിന്നെ ഞങ്ങൾ ചെയ്തു എക്സ്ചേഞ്ച് ചെയ്ത് ഇവിടെ 12 ന് വാങ്ങും എല്ലാ പ്രശ്നങ്ങളും 11 ഉം 12 ഉം മാത്രമാണെങ്കിൽ ഒരു ലംഘനം ഉണ്ടെങ്കിൽ 11 നെക്കാൾ വലുതായി ആഗ്രഹിക്കുന്നത് ലംഘനമാണ് എന്നാൽ 11 എന്നത് മറുവശത്തേക്കാൾ വലുതാണ് അതിനാൽ ഞാൻ ഈ മൂന്ന് നോഡ് ഘടനയുടെ മുകളിലേക്ക് 12 നീക്കുകയാണെങ്കിൽ അത് മറ്റേ വശത്തേക്കാൾ ചെറുതായിരിക്കില്ല കാരണം റൂട്ട് നിലവിൽ മറുവശത്തേക്കാൾ വലുതാണ് ഞാൻ 12 എണ്ണം നീക്കുന്നതിന്റെ ഒരേയൊരു കാരണം അത് ഇപ്പോഴും വലുതാണ് റഫർ സമയം 0818 അതിനാൽ ഞാൻ അങ്ങനെ ചെയ്യുമ്പോഴും മുകളിലേക്ക് മാറ്റുമ്പോഴും ഒരു മറുവശത്ത് നോക്കേണ്ടതില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരിക്കാം ഇപ്പോൾ എനിക്ക് 12 വരെ കിട്ടി അതിനാൽ ഇനി എന്തെങ്കിലും ലംഘനം ഉണ്ടോ എന്ന് ഞാൻ പരിശോധിക്കേണ്ടതുണ്ട് 12 24 നെക്കാൾ ചെറുതാണെന്ന് എനിക്ക് തോന്നുന്നു അതിനാൽ എനിക്ക് നിർത്താം അതിനാൽ 12 ഈ ഹീപ്സിലേക്ക് ചേർത്തതിന്റെ ഫലമായിരുന്നു ഇത് ഇപ്പോൾ എങ്ങനെ ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാവുന്നതുപോലെ എനിക്ക് ഒരു പുതിയ നോഡ് 33 ഇന്സേര്ട് ചെയ്യാൻ കഴിയും മുമ്പത്തെപ്പോലെ ഞാൻ 33 ചേർക്കുന്നു അതിനാൽ ഇത് 12 ന് ശേഷമുള്ള ഹീപിന്റെ ഫലമായിരുന്നു ഇപ്പോൾ ഞാൻ ഇവിടെ 33 ചേർത്തിട്ടുണ്ട് അതിനാൽ അത് ശരിയാകുന്നത് കാരണം അത് ഘടനയിലെ അടുത്ത നോഡാണ് ഞാൻ മൂല്യം വെക്കുന്നു പക്ഷേ അത് ഹീപ് പ്രോപ്പർട്ടി 11 ഉം 33 ഉം ആയിരിക്കും അതിനാൽ ഞാൻ അത് മാറ്റുന്നു വീണ്ടും ഇവിടെ എനിക്ക് ഒരു ലംഘനമുണ്ട് അതിനാൽ ഞാൻ അത് വീണ്ടും സ്വാപ്പ് ചെയ്യുന്നു വീണ്ടും എനിക്ക് ഇവിടെ ഒരു ലംഘനമുണ്ട് അതിനാൽ ഞാൻ അത് വീണ്ടും മാറ്റുന്നു ഇപ്പോൾ ഞാൻ റൂട്ടിലെത്തി അതിനാൽ യഥാർത്ഥത്തിൽ അത് ഏറ്റവും വലിയ നോഡായി മാറി ഇപ്പോൾ എനിക്ക് നിർത്താനാകും ഇതിന് എത്ര സമയമെടുക്കും അതിനാൽ ഓരോ തവണയും ഞങ്ങൾ ഒരു ഉൾപ്പെടുത്തൽ കാണുമ്പോഴെല്ലാം ഞങ്ങൾ ഒരു ലീഫ് നോഡിൽ നിന്ന് ആരംഭിച്ച് ഒരു പുതിയ ലീഫ് നോഡ് സൃഷ്ടിക്കുകയും ഞങ്ങൾ റൂട്ടിലേക്ക് നടക്കുകയും ചെയ്യുന്നു അതിനാൽ അത്തരമൊരു വസ്തുവിന്റെ ഏറ്റവും മോശം അവസ്ഥ അത് ട്രീയുടെ ഏറ്റവും മോശം അവസ്ഥയെ ആശ്രയിച്ചിരിക്കുന്നു എനിക്ക് ഇതുപോലൊരു ട്രീ ഉണ്ടെങ്കിൽ നമുക്ക് ട്രീയുടെ ഉയരം നിർവചിക്കേണ്ടതുണ്ട് അതിനാൽ ട്രീയുടെ ഉയരം ഏറ്റവും ദൈർഘ്യമേറിയ സെർച്ച് പാതയാണ് റൂട്ടിൽ നിന്ന് അവയിലേക്കുള്ള ഏറ്റവും ദൈർഘ്യമേറിയ പാതയുടെ നീളം അതിനാൽ നമുക്ക് ഒന്നുകിൽ അരികുകളുടെ എണ്ണം അല്ലെങ്കിൽ ശീർഷങ്ങളുടെ എണ്ണം കണക്കാക്കാം ഇത് ഉടൻ തന്നെ 4 ആയിരിക്കും അരികുകളാണെങ്കിൽ 3 എന്നത് പ്രശ്നമല്ല പക്ഷേ പോയിന്റ് അത്തരം ഏറ്റവും ദൈർഘ്യമേറിയ പാത സങ്കീർണ്ണത നിർണ്ണയിക്കും കാരണം പാതയിലെ ദൈർഘ്യം എനിക്ക് കൂടുതൽ തവണ വഴി കൈമാറ്റം ചെയ്യേണ്ടതുണ്ട് അതിനാൽ ഹീപ്സിന്റെ ഉയരത്തെക്കുറിച്ച് എന്താണ് പറയാൻ കഴിയുക അതിനാൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അത് ചെയ്ത രീതി കാരണം ഒരു ഹീപ്സിലാണ് എന്നതാണ് അതിനാൽ റൂട്ട് നോഡിൽ ലെവൽ 0 ൽ ഞങ്ങൾ ഈ ലെവൽ 0 എന്ന് വിളിക്കുന്നു നമുക്ക് ലെവൽ 1 ൽ കൃത്യമായി ഒരു നോഡ് ഉണ്ട് പരമാവധി 2 നോഡുകൾ ഉണ്ട് അതിനാൽ നമുക്ക് എഴുതാൻ കഴിയും 0 ന്റെ പവറിന് 2 ഇത് 2 മുതൽ പവർ 1 വരെയാണ് തീർച്ചയായും ഇവയിൽ ഓരോന്നിനും 1 ഉണ്ടാകും അതിനാൽ ഞങ്ങൾ ഇരട്ടിയാകും അതിനാൽ എല്ലാ തലത്തിലും നോഡുകളുടെ എണ്ണം ഇരട്ടിയാകും കാരണം മുമ്പത്തെ ഓരോ ലെവലിലും പരമാവധി രണ്ട് കുട്ടികളുണ്ട് അതിനാൽ ഞങ്ങൾ കൈമാറ്റം ചെയ്യേണ്ടതുണ്ട് അതിനാൽ ഈ രീതിയിൽ നമുക്ക് ലെവൽ 0 ലെ നോഡുകളുടെ എണ്ണം 2 ആണ് അതിനാൽ നിങ്ങൾക്ക് k ലെവലുകൾ ഉണ്ടെങ്കിൽ ലെവലുകൾ 0 1 മുതൽ k മൈനസ് 1 വരെയാണ് ഞങ്ങൾ ഇപ്പോൾ പറഞ്ഞത് 2 മുതൽ 0 വരെ പ്ലസ് 2 മുതൽ 1 വരെ പ്ലസ് 2 മുതൽ k വരെ k മൈനസ് 1 അതിനാൽ ഇത് 2 മുതൽ 0 പ്ലസ് 2 മുതൽ 1 വരെ പ്ലസ് 2 മുതൽ k മൈനസ് 1 വരെ ആയിരിക്കും ഇപ്പോൾ ഇതും അതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു വഴിയും ഇത് k 1s ഉള്ള ഒരു ബൈനറി സംഖ്യയാണ് അതിനാൽ ബൈനറി നമ്പർ k 1s എന്നത് പവർ k മൈനസ് 1 ന് 2 ആണ് മറ്റ് വാർഡുകളിൽ ഞാൻ k ലെവലുകൾക്കായി ഒരു ബൈനറി ട്രീ നിറച്ചാൽ എനിക്ക് പരമാവധി 2 മുതൽ k മൈനസ് 1 നോഡുകൾ വരെ ഉണ്ടാകും അതിനാൽ നോഡുകളുടെ എണ്ണം എക്സ്പോണൻഷ്യൽ ആണ് ലെവലുകളുടെ എണ്ണം അതിനാൽ ലെവലുകളുടെ എണ്ണത്തിൽ എനിക്ക് നോഡുകളുടെ എണ്ണം ഉണ്ടെങ്കിൽ ലോഗരിഥമിക് ആയിരിക്കണം ലെവലുകളുടെ എണ്ണമാണ് നിർണ്ണയിക്കുന്നത് ഏറ്റവും ദൈർഘ്യമേറിയ പാതയുടെ ലോഗരിഥമിക് ദൈർഘ്യം അതിനാൽ ഏതെങ്കിലും ഹീപ് ചേർക്കുക N ലോഗ് ന്റെ സമയ രേഖ എടുക്കും കാരണം എല്ലാ പാതയും മറഞ്ഞിരിക്കുന്ന ലോഗ് N ആയിരിക്കുമെന്ന് ഉറപ്പ് നൽകുന്നു ഒരു പ്രിയോറിറ്റി ക്യൂവിന് ഞങ്ങൾ നടപ്പിലാക്കേണ്ട മറ്റൊരു പ്രവർത്തനം പരമാവധി ഇല്ലാതാക്കുക എന്നതാണ് അതിനാൽ ആദ്യത്തെ ചോദ്യം ഒരു ഹീപ്സിൽ പരമാവധി എവിടെയാണ് അതിനാൽ ക്ലെയിം എപ്പോഴും മാക്സിമം റൂട്ട് ആണ് എന്തുകൊണ്ടെന്നാൽ ഞാൻ എവിടെയെങ്കിലും തുടങ്ങിയാൽ ഏതൊരു 3 നോഡിലും ഏറ്റവും മുകളിലുള്ളത് എനിക്കറിയാം ഉദാഹരണത്തിന് ഞാൻ 33 നോക്കിയാൽ 33 എന്നത് 24 7 എന്നിവയേക്കാൾ വലുതാണ് എന്നാൽ ഈ സബ് ട്രീലെ ഏറ്റവും വലിയ നോഡ് 24 ഉം സബ് ട്രീലെ ഏറ്റവും വലിയ നോഡും 7 ആയിരിക്കണമെന്ന് ഇൻഡക്റ്റീവ് ആയി എനിക്കറിയാം അതിനാൽ 34 രണ്ടിനെക്കാളും 33 വലുതാണ് ഇത് നേരിട്ട് അയച്ച മൊത്തത്തിലുള്ള ഏറ്റവും വലിയ നോഡായിരിക്കണം അതിനാൽ മൊഡ്യൂൾ ഇതിനകം തന്നെ റൂട്ടിലുള്ള 3 പരമാവധി മൂല്യങ്ങളാണ് അതിനാൽ ഇപ്പോൾ ഉയർന്നുവരുന്ന ചോദ്യം റൂട്ടിന്റെ പരമാവധി മൂല്യങ്ങൾ അത് എങ്ങനെ ട്രീയിൽ നിന്ന് ഫലപ്രദമായി നീക്കംചെയ്യാം എന്നതാണ് നിങ്ങൾ പരമാവധി മൂല്യം നീക്കംചെയ്യുന്നു അതിനാൽ ഈ ലീഫിനു ഹോൾസ് ഉണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് റൂട്ടിൽ ഒരു മൂല്യവുമില്ല അതേ സമയം ഞങ്ങൾക്ക് മൂല്യം നീക്കംചെയ്യുന്നതിനാൽ ട്രീയിലുള്ള മൂല്യങ്ങളുടെ എണ്ണം ഒന്നായി കുറയ്ക്കുന്നു പക്ഷേ ട്രീയുടെ ഘടന ഉറപ്പിച്ചുവെന്ന് ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ ഒരെണ്ണം കുറച്ചാൽ ഞങ്ങൾക്ക് റൂട്ട് നീക്കംചെയ്യാൻ കഴിയില്ല ഈ ഇടത്തുനിന്ന് വലത്തോട്ട് മുകളിൽ നിന്ന് താഴെയുള്ള ഓർഡറിൽ പോകുന്ന അവസാന നോഡ് ഞങ്ങൾ നീക്കംചെയ്യണം അതിനാൽ വാസ്തവത്തിൽ ഈ നോഡ് ഇവിടെ നിന്ന് നീക്കംചെയ്യണം അതിനാൽ ഇപ്പോൾ നമുക്ക് ഹോമിലാത്ത ഒരു മൂല്യമുണ്ട് അതിന് ഒരു റൂട്ട് നോഡും ഇല്ല ഞങ്ങൾക്ക് ശൂന്യമായ ഒരു ഹോം ഉണ്ട് അതിനാൽ ഞങ്ങൾ എന്താണ് ചെയ്യുന്നത് ഈ 11 നെ റൂട്ടിലേക്ക് നീക്കും ഇപ്പോൾ നിർഭാഗ്യവശാൽ ലീഫിൽ നിന്ന് റൂട്ടിലേക്ക് നീങ്ങുന്ന ചില അനിയന്ത്രിതമായ നോഡുകൾ എടുക്കുന്നതിലൂടെ ഞങ്ങൾ ഹീപ്പ് ഓർഡർ തടസ്സപ്പെടുത്തിയതിനാൽ ഞങ്ങൾക്ക് ഹീപ് പ്രോപ്പർട്ടി സംതൃപ്തമാണോ അല്ലയോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല ഇപ്പോൾ ഹീപ് പ്രോപ്പർട്ടി റൂട്ടിൽ ലംഘിക്കാവുന്ന ഒരേയൊരു സ്ഥലം കാരണം മറ്റെല്ലായിടത്തും പ്രാദേശിക നെയ്ബർഹുഡ് അത് പ്രവർത്തനമാണെന്ന് സ്പർശിക്കുന്നില്ല അവരുടെ നെയ്ബർഹുഡ് സ്പർശിച്ച മറ്റൊരു സ്ഥലം മാത്രമാണ് ഇവിടെ പക്ഷേ എല്ലായ്പ്പോഴും ഒരു നോഡ് നീക്കം ചെയ്യുകയായിരുന്നു നിങ്ങൾ ഒരു ലീഫ് നീക്കം ചെയ്യുകയാണെങ്കിൽ അതിന് ഒരു ഹീപ് പ്രോപ്പർട്ടി ലംഘിക്കാൻ കഴിയില്ല കാരണം മുകളിലെ നോഡിന് ഇത് ഇതിനകം ഈ രണ്ട് ട്രീയേക്കാളും വലുതാണ് അതിനാൽ ഞങ്ങൾക്ക് ലംഘനം ഉണ്ടാകാനുള്ള ഒരേയൊരു സ്ഥലം ഇവിടെ മാത്രമാണ് തീർച്ചയായും ഞങ്ങൾ അത് ചെയ്യുന്നു അവരുടെ തെറ്റായ 11 ഉം 24 ഉം കാരണം ഞങ്ങൾ ഇപ്പോൾ ഹീപ് പ്രോപ്പർട്ടി താഴേക്ക് സൂക്ഷിക്കാൻ തുടങ്ങും ഞങ്ങൾ മുകളിലേക്ക് കയറ്റിയപ്പോൾ അത് ഇവിടെ ആരംഭിച്ച് ഇത് നോക്കുന്നു തുടർന്ന് ഞങ്ങൾ രണ്ട് ദിശകളിലേക്കും നോക്കും രണ്ടിൽ വലിയ ഒന്ന് എടുത്ത് മുകളിലേക്ക് നീക്കുന്നു അതിനാൽ ഞങ്ങൾ ഏറ്റവും വലിയ ചൈൽഡ്ടുമായി സ്വാപ്പ് ചെയ്യുന്നു ഉദാഹരണത്തിന് ഈ അഡ്മിൻ 7 അല്ല 17 എന്നിട്ട് എനിക്ക് എന്ത് സംഭവിക്കും നിങ്ങൾ 17 ലേക്ക് നീങ്ങുകയാണെങ്കിൽ 17 11 24 എന്നിങ്ങനെ കാണുന്നു ഇത് ഹീപ് പ്രോപ്പർട്ടി പരിഹരിക്കില്ല കാരണം ഇത് അവർ ആഗ്രഹിക്കുന്നതായി കാണണം അതിനാൽ നമ്മൾ രണ്ടിലും വലിയത് എടുത്ത് മുകളിലേക്ക് കൊണ്ടുപോകണം കാരണം ഈ മൂന്നെണ്ണത്തിൽ ഏറ്റവും വലിയ മൂല്യം മുകളിലായിരിക്കണം അതാണ് മാക്സ് ഹീപ് പ്രോപ്പർട്ടിയുടെ നിർവചനം അതിനാൽ ഞങ്ങൾ 11 ഉം 24 ഉം കൈമാറുന്നു അതിനാൽ 24 റൂട്ടിലേക്ക് പോകുന്നു തുടർന്ന് 11 ഈ ദിശയിലേക്ക് വന്നു അതിനാൽ ഇപ്പോൾ അസ്വസ്ഥമായ ഈ ഭാഗം ഹീപ് പ്രോപ്പർട്ടി തൃപ്തിപ്പെടുത്തുന്നുണ്ടോ എന്ന് നമ്മൾ രണ്ടാമതും പരിശോധിക്കണം തീർച്ചയായും ഈ സാഹചര്യത്തിൽ അത് സംഭവിക്കുന്നില്ല കാരണം 11 ഉം 12 ഉം ശരിയായ കാര്യത്തിലല്ല അതിനാൽ ഈ 3 ൽ വീണ്ടും ഞാൻ പരമാവധി മൂല്യം ഉയർത്തേണ്ടതുണ്ട് അതിനാൽ ഞാൻ 12 എടുത്ത് 11 താഴേക്ക് നീക്കുന്നു ഈ ഹീപ് പ്രോപ്പർട്ടി തൃപ്തികരമാണോ എന്ന് ഇപ്പോൾ ഞാൻ ഈ വിഭാഗം പരിശോധിക്കേണ്ടതുണ്ട് ഇവിടെ അത് തൃപ്തിപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ ഞങ്ങൾക്ക് നിർത്തണം അതിനാൽ മാക്സ് ഡിലീറ്റിൽ ഞാൻ റൂട്ടിൽ നിന്ന് ആരംഭിക്കുകയും ഞാൻ താഴേക്ക് നടക്കുകയും ചെയ്യുന്നു അതിനാൽ ഞങ്ങൾ ഇത് വീണ്ടും ചെയ്യുന്നുവെന്ന് കരുതുക ഞാൻ 24 നീക്കംചെയ്യുന്നു എന്നിട്ട് ഞാൻ 10 അവസാന ലീഫിൽ നിന്ന് മുകളിലേക്ക് നീക്കുന്നു പിന്നെ ഞാൻ വീണ്ടും ഈ പ്രശ്നം പരിഹരിക്കേണ്ടതുണ്ട് അതിനാൽ ഞാൻ 10 ഉം 12 ഉം കൈമാറുന്നു പിന്നെ ഞാൻ ഇത് നോക്കുകയും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും വേണം ഈ ട്രീകളിൽ ഏറ്റവും വലുത് 11 ഞാൻ 10 ഉം 11 ഉം ശരിയാക്കുന്നു എനിക്ക് അത് ലഭിക്കും അതിനാൽ ഇപ്പോൾ ഞാൻ ഏറ്റവും വലിയത് എടുക്കുന്നുവെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് ഞാൻ മറ്റ് ദിശകളിലേക്ക് നടക്കില്ല അതിനാൽ ഞാൻ എപ്പോഴും ഒരൊറ്റ പാതയായി നടക്കുന്നു അതിനാൽ ചെലവ് ഉയരത്തിന് ആനുപാതികമാണ് ഒരു ഹീപിൽ ഉയരം ലോഗരിഥമിക് ആണെന്ന് നമുക്കറിയാവുന്നതിനാൽ ഡിലീറ്റ് മാക്സ് എന്നത് ഒരു ഓർഡർ ലോഗ് N ഓപ്പറേഷൻ ആണ് അതിനാൽ ഞങ്ങൾ ചെയ്തത് ഒരു ഹീപ് യഥാർത്ഥത്തിൽ ഡിലീറ്റ് മാക്സും ലോഗ് N ടൈമിൽ ഇന്സേര്ട് ചെയുകയും ചെയ്യുന്നുവെന്ന് ഞങ്ങൾ കാണിച്ചു ഇപ്പോൾ ഹീപ്സിനെ കുറിച്ചുള്ള മറ്റ് വളരെ നല്ല പ്രോപ്പർട്ടി നമുക്ക് വളരെ സങ്കീർണ്ണമായ ഒരു ട്രീ ഇഷ്ടപ്പെടുന്ന ഘടന നിലനിർത്തേണ്ട ആവശ്യമില്ല എന്നതാണ് ഇത് ചെയ്യുന്നതിന് നമുക്ക് വാസ്തവത്തിൽ എല്ലാ നോഡുകളും ഒരു ഹീപിൽ എണ്ണാൻ കഴിയുമെന്ന് ഞങ്ങൾ നിരീക്ഷിക്കുന്നു റൂട്ടിൽ ആരംഭ സംഖ്യ 0 ആദ്യ നോഡ് ഞങ്ങൾ റൂട്ടിന് 1 ൽ താഴെ പൂരിപ്പിക്കുന്നു മറ്റ് ചൈൽഡ് 2 ഉം അങ്ങനെ എനിക്ക് 0 1 2 എന്ന സംഖ്യയുണ്ട് അതിനാൽ ഈ ഹീപിൽ 0 1 2 എന്നിങ്ങനെ ഉള്ള ഒരു അറേ ഹീപായി എനിക്ക് പ്രതിനിധീകരിക്കാൻ കഴിയും ഇപ്പോൾ ഈ ക്ലെയിം ഒരു സ്ഥാനത്ത് നിർവചിക്കുന്നു i അതിനാൽ എനിക്ക് എന്തെങ്കിലും I സ്ഥാനം ഉണ്ടെങ്കിൽ ഇതിലെ ചിൽഡ്രൻ 2 i പ്ലസ് 1 2 i പ്ലസ് 2 എന്നിവ നിങ്ങൾക്ക് ഇത് എല്ലായിടത്തും പരിശോധിക്കാനാകും അതിനാൽ എനിക്ക് ശരിക്കും ഒരു ഹീപിൽ പോയി ഹീപ് പ്രോപ്പർട്ടിനെക്കുറിച്ച് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ഞാൻ i സ്ഥാനം നോക്കും തുടർന്ന് ഞാൻ സ്ഥാനം 2 i പ്ലസ് 1 2 i പ്ലസ് 2 എന്നിവയിലേക്ക് മുന്നേറും അറേയ്ക്കുള്ളിൽ പൂർണ്ണമായും അറേ ഉപയോഗിച്ച് എനിക്ക് ഒരു നോഡിലെ ചിൽഡ്രൻ നോക്കാനും ഈ പ്രവർത്തനം വിപരീതമാക്കാനും കഴിയും ഞാൻ j മൈനസ് 1 ബൈ 2 നോക്കുകയും അതിന്റെ ഫ്ലോർ എടുക്കുകയും ചെയ്താൽ ഞാൻ ഇത് തിരികെ കൊണ്ടുവരും അതിനാൽ ചൈൽഡ്ടുമായി 2 i പ്ലസ് 1 2 i പ്ലസ് 2 എന്നിട്ട് പാരന്റ് j മൈനസ് 1 ബൈ 2 ആണ് തുടർന്ന് അത് ഭിന്നമായിരിക്കാം അതിനാൽ പൂർണ്ണസംഖ്യകൾ എടുക്കുക അതിനാൽ ഫ്ലോർ എന്നാൽ j മൈനസ് 1 ബൈ 2 പൂർണ്ണസംഖ്യ എടുക്കുക എന്നാണ് അർത്ഥമാക്കുന്നത് അതിനാൽ ഇത് j മൈനസ് ഹാഫ് അല്ല അതിനാൽ ഇതിന് j മൈനസ് 1 ബൈ 2 ഉം ഉണ്ട് ഉദാഹരണത്തിന് 12 j മൈനസ് 1 എന്നത് 11 ആണ് 11 ബൈ 2 എന്നത് 5 ആണ് അതിന്റെ ഹാഫ് ഫ്ലോർ 5 ആണ് അതിനാൽ പാരന്റ് ന് 12 ആണ് 5 അതിനാൽ ഇത് ഫോം ആണോ എന്ന് നിങ്ങൾക്ക് പരിശോധിക്കാം അതിനാൽ എനിക്ക് കഴിയും ഇപ്പോൾ എന്റെ എല്ലാ ഹീപ് കൃത്രിമത്വവും ഒരു ശ്രേണിയിൽ ചെയ്യുക എന്നത് അത് വളരെ സൌകര്യപ്രദമാണ് എനിക്ക് ഒരു ശ്രേണി എഴുതേണ്ടതുണ്ട് തുടർന്ന് ഞാൻ ഈ പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴെല്ലാം ഹീപ് മുകളിലേക്കും നടക്കുമ്പോൾ ഞാൻ 2 i പ്ലസ് 1 2 i പ്ലസ് 2 ഫോർമുല ഉപയോഗിക്കുന്നു j മൈനസ് 1 ബൈ 2 ഫോർമുലയുടെ ഈ ഫ്ലോർ എന്താണ് ഉപയോഗിക്കുന്നത് അതിനാൽ ഈ മുഴുവൻ പ്രക്രിയയും ഞങ്ങൾ എങ്ങനെ ആരംഭിക്കും ഒരു നിശ്ചിത മൂല്യങ്ങളിൽ നിന്ന് ഒരു ഹീപ് എങ്ങനെ നിർമ്മിക്കാം അതിനാൽ വളരെ നിഷ്കളങ്കമായ ഒരു തന്ത്രം ഇനിപ്പറയുന്ന രീതിയിൽ പ്രവർത്തിക്കുകയും ഒരു കൂട്ടം മൂല്യങ്ങൾ n മൂല്യങ്ങൾ x 1 മുതൽ x n വരെ നൽകുകയും ചെയ്യും അതിനാൽ ഞാൻ ഒരു ശൂന്യമായ ഹീപ് ഉപയോഗിച്ച് ആരംഭിക്കുന്നു തുടർന്ന് ഞാൻ x 1 ചേർക്കുന്നു അതിനാൽ എനിക്ക് 1 വലുപ്പമുള്ള ഒരു ഹീപ് ഉണ്ട് അതിനുശേഷം ഞാൻ x 2 ചേർക്കുന്നു അതിനാൽ ഇപ്പോൾ എനിക്ക് 2 വലുപ്പമുള്ള ഒരു ഹീപ് ലഭിക്കുന്നു അതിനാൽ ഞാൻ n ചേർക്കുന്നു ഓരോ ഉൾപ്പെടുത്തലും ലോഗ് N ടൈം എടുക്കുന്നു അതിനാൽ ഞാൻ അത് ഇടുകയാണെങ്കിൽ ലോഗ് i ടൈം എടുക്കും അതിനാൽ നമുക്ക് എടുക്കാം ലോഗ് N ഒരു അപ്പർ ബൌണ്ടായി അതിനാൽ മൊത്തത്തിൽ ഞാൻ ഈ N മൂലകങ്ങൾ ചേർത്താൽ ഞാൻ ഹീപ്സും N ലോഗ് N ടൈമും നിർമ്മിക്കും ഇപ്പോൾ വാസ്തവത്തിൽ ഇത് ചെയ്യാൻ ഒരു മികച്ച മാർഗമുണ്ടെന്ന് തോന്നുന്നു അതിനാൽ എനിക്ക് ഏതെങ്കിലും ശ്രേണി നോക്കിയാൽ ഇത് ഒരു ഹീപായി എനിക്ക് ചിന്തിക്കാം അത് ഓർഡർ ചെയ്യപ്പെട്ടതാണെന്ന് എനിക്ക് സങ്കൽപ്പിക്കാൻ കഴിയും കാരണം ഓരോ ശ്രേണിയും ഒരു ഹീപ് വ്യാഖ്യാനമായി ഈ ശ്രേണി ഇങ്ങനെയാണെന്ന് എനിക്ക് സങ്കൽപ്പിക്കാൻ കഴിയും തീർച്ചയായും ഞാൻ അതിനെ ഹീപായി കരുതുകയാണെങ്കിൽ അത് ഹീപ് പ്രോപ്പർട്ടി തൃപ്തിപ്പെടുത്തുന്നില്ല പക്ഷേ ഞാൻ ഹീപായി ക്രമീകരിച്ചാൽ ഇത് ഇങ്ങനെയായിരിക്കും ഇപ്പോൾ ഇതിൽ ലീഫിന്റെ തലത്തിലുള്ള എന്തും പരിശോധിക്കേണ്ടതില്ല കാരണം അതിന് ചൈൽഡ് ഇല്ലാത്തതിനാൽ എല്ലാ ലീഫും നിസ്സാരമായി ഹീപ് പ്രോപ്പർട്ടി തൃപ്തിപ്പെടുത്തുന്നു അതിനാൽ ഞാൻ മുമ്പത്തെ തലത്തിൽ മാത്രം കാര്യങ്ങൾ പരിഹരിക്കാൻ ആരംഭിക്കേണ്ടതുണ്ട് അതിനാൽ ഞാൻ ഇതിലേക്ക് തിരിച്ച് പ്രവർത്തിക്കുന്നു അതിനാൽ ഞാൻ ഇവിടെ വന്ന് x 3 ഞാൻ ഹീപ് പ്രോപ്പർട്ടി അതാത് ചൈൽഡ്ടുമായി ശരിയാക്കുന്നു x 2 ൽ അതാത് ഓരോ ചൈൽഡ്ടുമായി പ്രോപ്പർട്ടി ശരിയാക്കുമ്പോൾ ഈ പ്രക്രിയയിൽ ഒരു മുകളിലേക്കും താഴേക്കും മാത്രം ഞാൻ വരും x 1 ഞാൻ പ്രശ്നം പരിഹരിക്കും ഇപ്പോൾ ഇത് 2 ലെവലുകൾ ഉൾപ്പെട്ടേക്കാം അതിനാൽ ഓരോ ലെവലിനും k മൈനസ് 1 k മൈനസ് 2 അതിനാൽ ലീഫ്സ് k ലെവലിൽ k മൈനസ് 1 k മൈനസ് 2 ൽ റൂട്ട് വരെ ഞങ്ങൾ ഹീപ് പ്രോപ്പർട്ടി ശരിയാക്കുന്നു അതിനാൽ ഞങ്ങൾ ഹീപ് പ്രോപ്പർട്ടി ശരിയാക്കാൻ പോകുമ്പോൾ ഡിലീറ്റ് മാക്സ് ഞങ്ങൾ ചെയ്തതുപോലെ താഴേക്ക് നടക്കുക ലീഫിലേക് നടക്കുക അതിനാൽ ഈ പാതയുടെ നീളം ഉയരുന്ന ഓരോ ലെവലും 1 വർദ്ധിക്കുന്നു പക്ഷേ താഴേക്ക് പോകുമ്പോൾ ലെവലുകൾ ഇരട്ടിയാകുന്നതിനാൽ അവ മുകളിലേക്ക് പോകുന്തോറും അവയ്ക്ക് ഉണ്ട് അതിനാൽ ഈ അധിക ദൈർഘ്യമുള്ള പാത പരിശോധിക്കേണ്ട നോഡുകളുടെ എണ്ണം വസ്തുത വരി അനുസരിച്ച് താഴേക്ക് പോകുന്നു അതിനാൽ ഇപ്പോൾ നിങ്ങൾ വിശകലനം ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ കൃത്യമായി ചെയ്യാൻ പോകുന്നില്ലെങ്കിൽ ഈ പ്രക്രിയയിൽ നിങ്ങൾക്ക് ഒരു ഹീപ് ഉണ്ടാക്കേണ്ടതിന്റെ എണ്ണം യഥാർഥത്തിൽ ഓർഡർ N മാത്രമാണ് അപ്പോൾ അത് ഒരു ഓർഡർ N നടപടിക്രമമായിരിക്കും അതിനാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ ഒരു ഗൈഡർ ചിത്രം നേടുക അതിനാൽ ഞങ്ങളുടെ പക്കൽ 15 ഘടകങ്ങളുണ്ടെന്ന് നമുക്ക് അനുമാനിക്കാം ഏകദേശം 15 ൽ 8 എണ്ണം ഇതിനകം തന്നെ ഹീപ്പ് പ്രോപ്പർട്ടി തൃപ്തിപ്പെട്ടിരിക്കുന്നു അതിനാൽ ഇത് ഒന്നും ചെയ്യാനില്ല അതിനാൽ ഞാൻ ഒരു ലെവൽ മുകളിലേക്ക് പോയി ഞാൻ ഇത് ശരിയാക്കുന്നു ഞാൻ ഇത് ശരിയാക്കുമ്പോൾ ഞാൻ 4 നോഡുകൾക്കായി ചെയ്യേണ്ടതുണ്ട് അവയിൽ ഓരോന്നും റിപ്പയറിൽ ഒരു സ്വാപ്പ് കൂടുതലോ അല്ലെങ്കിൽ സ്വാപ്പുകളോ ഉൾപ്പെടുന്നില്ല ഏറ്റവും മോശം അവസ്ഥ അങ്ങനെ അപ്പോൾ ഞാൻ ഒരു ലെവൽ ഉയർത്തും ഇപ്പോൾ ഈ നോഡുകളിൽ ഓരോന്നിനും ഞാൻ ദൈർഘ്യമുള്ള 2 പാതകൾ താഴേക്ക് പോകേണ്ടി വരും അതിനാൽ അവയിൽ ഓരോന്നിനും ഒരു ഉയരം 2 റിപ്പയർ ഉൾപ്പെടുന്നു ഞാൻ 2 നോഡുകളിലേക്ക് പോയി അതിനാൽ ഒരു പകുതി നോഡ് മാത്രം ആവശ്യമുള്ള മിനി നോഡുകൾ മാത്രമാണ് പകുതി ഒടുവിൽ ഞാൻ റൂട്ടിലേക്ക് പോകുമ്പോൾ അവസാന ലീഫിലേക് മാറ്റുന്നത് ഉൾപ്പെടുന്ന തരത്തിലുള്ള ഒരു പരിഹാരം ഞാൻ ചെയ്യേണ്ടി വന്നേക്കാം അതിനാൽ 3 സ്വാപ്പുകൾ പക്ഷേ ഇത് ചെയ്യുന്നത് ഈ ഒരു നോഡ് മാത്രമാണ് അതിനാൽ ട്രേഡ് ഉള്ളതിനാൽ പരിഹരിക്കേണ്ട നോഡുകളുടെ എണ്ണം പകുതിയായി കുറയുകയും ദൈർഘ്യം വർദ്ധിക്കുകയും ചെയ്യുന്നു ഈ ഓപ്പറേറ്റിന് മുഴുവൻ ഓർഡർ N ടൈം മാത്രമേ ആവശ്യമുള്ളൂ അതിനാൽ ചുരുക്കത്തിൽ പ്രത്യേക ബാലൻസ് ട്രീസ് ഉപയോഗിച്ച് ഹീപ്സ് പ്രൈയോരിറ്റി ക്യൂകൾ നടപ്പിലാക്കുന്നു ഈ ട്രീയിൽ ഡിലീറ്റ് മാക്സും ഇന്സേര്ട് അല്ലെങ്കിൽ ലോഗരിതം ചേർക്കുകയും ചെയ്യുന്നു ഈ ഹീപ് ഉപയോഗിച്ച് ഒരു ഹീപ് നിർമ്മിക്കാനും ഓർഡർ N ടൈം ക്രമീകരിക്കാനും നമുക്ക് കഴിയും ഏറ്റവും പ്രയോജനകരമായ കാര്യം ഈ ഹീപ്സിനെ യഥാർത്ഥത്തിൽ ഒരു അറേയായി വളരെ ലളിതമായി കൈകാര്യം ചെയ്യാൻ കഴിയും എന്നതാണ് ഇപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം ഹീപ്സിനെ അവസ്ഥ വിപരീതമാക്കുക എന്നതാണ് അതിനാൽ v 1 v 2 v 3 എന്നിവ കാണുമ്പോഴെല്ലാം v 1 v 2 v 3 എന്നിവയേക്കാൾ ചെറുതായിരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിനാൽ ഇതിനെയാണ് ഒരു മിൻ ഹീപ് എന്ന് വിളിക്കുന്നത് ഞങ്ങൾ എന്താണ് ചെയ്യുന്നത് അതിനാൽ മാക്സ് ഹീപ് ആണ് അതിനാൽ ചിലപ്പോൾ നിങ്ങൾ ഏറ്റവും ചെറിയ മുൻഗണന ട്രാക്ക് ചെയ്യാനും ഏറ്റവും ചെറിയ മുൻഗണന ഇനം നീക്കം ചെയ്യാനും ആഗ്രഹിക്കുന്നു ഉദാഹരണത്തിന് നിങ്ങൾ ഒരു പരീക്ഷയിൽ ആളുകളെ എങ്ങനെ റാങ്ക് ചെയ്യുന്നുവെന്ന് ചിന്തിക്കുക അതിനാൽ നിങ്ങൾ ഒരു മത്സര പരീക്ഷയിൽ ചെറിയ റാങ്കിന് ഉയർന്ന മുൻഗണന നൽകുന്നുവെങ്കിൽ അതിനാൽ നിങ്ങൾക്ക് റാങ്ക് 1 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും മുൻഗണനയുണ്ട് അതിനാൽ ചെറിയ സംഖ്യകളെക്കുറിച്ച് ചിന്തിക്കുന്നത് സ്വാഭാവികമായ ഈ ചില സാഹചര്യങ്ങൾക്ക് ഉയർന്ന മുൻഗണനയുണ്ട് അതിനാൽ നിങ്ങൾ വളരെയധികം എന്തെങ്കിലും ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങൾ ഹീപ്പ് റൂട്ട് മിനിമം ആയി മാറ്റണം അതിനാൽ ഓരോ നോഡും രണ്ട് ചിൽഡ്രനേക്കാൾ ചെറുതാണ് തുടർന്ന് എല്ലാം ഞങ്ങൾ ചെയ്തതുപോലെ തന്നെ പ്രവർത്തിക്കും അതിനാൽ ഞങ്ങൾക്ക് രണ്ട് തരം ഹീപ്സ് ഉണ്ട് നിങ്ങൾക്ക് മാക്സ് ഹീപ്സ് ഉണ്ട് നിങ്ങൾക്ക് മിൻ ഹീപ്സ് ഉണ്ട് മാക്സ് ഹീപ്സിലും മിൻ ഹീപ്സിലും വ്യത്യാസമുണ്ട് നോഡുകളിലെ ഹീപ് അവസ്ഥയാണ് അത് നിങ്ങൾ നടപ്പിലാക്കുന്ന പ്രവർത്തനം ഡിലീറ്റ് മിൻ ഡിലീറ്റ് മാക്സ് ചെയ്യുന്നുണ്ടോ എന്നത് നിങ്ങൾക്ക് അനുയോജ്യമാണ്